അതിനാൽ കർവ് അടിസ്ഥാനമാക്കിയുള്ള നേർരേഖയെ ഏകദേശം കണക്കാക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ പൊതുവായി പറഞ്ഞാൽ ഈ സർക്യൂട്ടിന്റെ സമവാക്യം R f ഡയോഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ VD യുടെ ഈ f IS ആയിരുന്നു ഇപ്പോൾ ഞാൻ കണക്കാക്കുന്ന ആദ്യത്തെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് VS VS0 ക്ക് ആണെന്ന് പറയട്ടെ അതിനാൽ VS ചില മൂല്യമായ VS0 ന് തുല്യമായപ്പോൾ ഇവിടെ ഈ നീല നിറത്തിലുള്ള സ്റ്റഫ് കണക്കാക്കുന്നു അത് എന്താണെന്നത് പ്രശ്നമല്ല അടിസ്ഥാനപരമായി ഞാൻ ആദ്യം കണക്കാക്കിയത് ഇതാണ് അതിനാൽ ഇത് VS0 ആണ് ഇത് VS0R ആണ് ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ പരിഹാരം ഞാൻ ആ മൂല്യങ്ങളെ VD0 ID0 എന്നിങ്ങനെ വിളിക്കാം അതിനാൽ VD0 ID0 എന്നിവ ഡയോഡിന്റെ പ്രവർത്തന പോയിന്റാണ് ഇത് നോൺ ലീനിയർ വിശകലനത്തിലൂടെ ലഭിക്കണം ഇത് തീർച്ചയായും സംഖ്യാപരമായതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഡയോഡ് Vage VD0 ആണെന്ന് ഞാൻ പറയട്ടെ ഞാൻ ഇതുപോലെ സൂചിപ്പിച്ചു കൂടാതെ ഡയോഡ് കറന്റ് ID0 ആണ് IS 10 15 A ഉം VS 5 7 V ഉം R 5 KΩ ഉം ആണെങ്കിൽ VD0 ഏകദേശം 0 716 V ആയി മാറുന്നു ID0 ഏകദേശം 1mA ആണ് ഇത് എനിക്ക് സംഖ്യാ വിശകലനത്തിൽ നിന്ന് ലഭിച്ചു അതാണ് പ്രവർത്തന പോയിന്റ് ഇപ്പോൾ നമുക്ക് VS ന്റെ മറ്റൊരു മൂല്യമുണ്ടെന്ന് പറയട്ടെ VS ന്റെ പുതിയ മൂല്യത്തെ VS0 ഉം ചില ചെറിയ vS ഉം ഞാൻ പ്രതിനിധീകരിക്കും അതായത് പുതിയ VS എന്നത് പഴയ മൂല്യവും ഒരു ഇൻക്രിമെന്റ് ലോവർ കേസ് vS ആയി പ്രതിനിധീകരിക്കുന്നു എനിക്ക് ഇത് എപ്പോഴും ചെയ്യാൻ കഴിയും ഞാൻ അർത്ഥമാക്കുന്നത് VS ന്റെ യഥാർത്ഥ മൂല്യം 5 7 V ആണ് VS 6 7 V ആയി മാറുകയാണെങ്കിൽ അത് ഒരു V ഇൻക്രിമെന്റ് ആണെന്ന് ഞാൻ പറയും 7 V ൽ കൂടുതൽ ഏത് VS നും എനിക്ക് ഇത് ചെയ്യാൻ കഴിയും അതുപോലെ ഈ സർക്യൂട്ടിലെ എല്ലാ അളവുകളെയും ഞാൻ പ്രതിനിധീകരിക്കുന്നു അതാണ് യഥാർത്ഥ ഡയോഡ് വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡയോഡ് വോൾട്ടേജും ഡയോഡ് വോൾട്ടേജിലെ വർദ്ധനവും മറ്റും അതിനാൽ എല്ലാ അളവുകളും യഥാർത്ഥ മൂല്യമായി പ്രതിനിധീകരിക്കുന്നു അത് തീർച്ചയായും ഓപ്പറേറ്റിംഗ് പോയിന്റ് പ്ലസ് ഇൻക്രിമെന്റുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്റെ സമവാക്യങ്ങൾ എഴുതാം അതിനാൽ എനിക്ക് R IS ഉണ്ടായിരുന്നു പ്രവർത്തന പോയിന്റ് തീർച്ചയായും സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ R IS പുതിയ മൂല്യം VS0 vS എന്നതിനെയും തൃപ്തിപ്പെടുത്തുന്നു ഞാൻ ഈ VS പുതിയ മൂല്യം VS0 എന്നതിനൊപ്പം ഒരു ഇൻക്രിമെന്റായി എഴുതുകയാണ് R IS eVd0VdVt 1 ഇപ്പോൾ ഞാൻ അത് ഡയോഡിന് വേണ്ടി മാത്രമല്ല പൊതുവായ രീതിയിൽ എഴുതട്ടെ അതിനാൽ ഇത് പൊതുവെ VD യുടെ ചില ഫംഗ്ഷനായിരിക്കും ഇത് VD0 ന്റെ ഫംഗ്ഷനായിരിക്കും ഓപ്പറേറ്റിംഗ് പോയിന്റ് അതിനാൽ ഇതാണ് പൊതുവായ സമവാക്യം മൂന്നാമത്തെ കേസിൽ ഞാൻ ജനറൽ കേസിനെ ഓപ്പറേറ്റിംഗ് പോയിന്റും ഒരു ഇൻക്രിമെന്റും ആയി പ്രതിനിധീകരിക്കുന്നു അതിനാൽ എനിക്ക് fVD0 VD ഉണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെക്കുറിച്ചുള്ള ഒരു ടെയ്ലർ സീരീസിൽ ഇത് വികസിപ്പിക്കുകയാണ് ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ പ്രാധാന്യം ഒറിജിനൽ കേസ് ആയ ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് ഞാൻ തിരഞ്ഞെടുക്കുന്നു അതിനായി ഞാൻ നോൺ ലീനിയർ സൊല്യൂഷൻ കൃത്യമായി കണക്കാക്കുന്നു ആ പ്രവർത്തന പോയിന്റിന് മുകളിൽ ഞാൻ ഒരു ടെയ്ലർ സീരീസിൽ പുതിയ കേസ് വികസിപ്പിക്കുന്നു എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് പ്രവർത്തന പോയിന്റിലെ ഫംഗ്ഷനും ഈ ഇൻക്രിമെന്റ് VD സമയങ്ങളിൽ കണക്കാക്കിയ ആദ്യത്തെ ഡെറിവേറ്റീവും ഒപ്പം ഉയർന്ന ഓർഡർ ടേമുകളും ലഭിക്കും കാരണം ഞാൻ ഇത് അവഗണിക്കാൻ പോകുന്നു ഞാൻ അവ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഞങ്ങൾ ഇത് ഗ്രാഫിക്കൽ സൊല്യൂഷനിൽ ഇതിനകം കണ്ടു അതിനാൽ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് VD0 ആണെന്ന് പറയാം അതിനാൽ ഇവിടെ ആദ്യത്തെ പദം f ഈ ഭാഗമല്ലാതെ മറ്റൊന്നുമല്ല ഇത് f ആണ് രണ്ടാമത്തെ പദം അർത്ഥമാക്കുന്നത് VD യുടെ രേഖീയ ആശ്രിതത്വം അല്ലെങ്കിൽ VD0 നേക്കാൾ ഇൻക്രിമെന്റ് എന്നാണ് അതിനാൽ ഈ പദങ്ങളുടെ ആകെത്തുക ഈ നേർരേഖയുമായി യോജിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഉയർന്ന ഓർഡർ ടേമുകൾ ചേർക്കാം അടുത്തത് പരാബോളിക് ആയിരിക്കും അടുത്തത് ക്യൂബിക് ആയിരിക്കും നിങ്ങൾ അതെല്ലാം ചേർത്താൽ നിങ്ങൾക്ക് കൃത്യമായ രേഖീയത ലഭിക്കും എന്നാൽ ഞങ്ങൾ ഇവിടെ നിർത്തി നേർരേഖ ഉപയോഗിക്കും അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതെന്തും നിങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് വളരെ അകലെയല്ലെങ്കിൽ നിങ്ങൾക്ക് നേർരേഖയുടെ ഏകദേശം ഉപയോഗിക്കാം കൂടാതെ നേർരേഖ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വക്രത്തിലേക്കുള്ള ടാൻജെന്റാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരു ടെയ്ലർ സീരീസിലെ നോൺ ലീനിയാരിറ്റിയെ ഓപ്പറേറ്റിംഗ് പോയിന്റിന് മുകളിൽ വിപുലീകരിക്കുന്നു കൂടാതെ സെക്കൻഡ് ഓർഡറും രണ്ടാം ഓർഡർ നിബന്ധനകളേക്കാൾ ഉയർന്നതുമായ എല്ലാ ഉയർന്ന ഓർഡർ നിബന്ധനകളും അവഗണിക്കുന്നു ടെയ്ലർ സീരീസ് വിപുലീകരണം ഈ വലത് f പോലെ പോകുന്നു അത് f ആണ് ഒപ്പം ഇൻക്രിമെന്റ് f f f2 ആയിരിക്കും 2 തീർച്ചയായും എല്ലാം കണക്കുകൂട്ടുന്നത് f എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ പദങ്ങൾ ആദ്യത്തേതിനെ അപേക്ഷിച്ച് VD യുടെ മൂല്യം കുറയുന്നതോടെ ഉയർന്ന ഓർഡർ നിബന്ധനകൾ വളരെ വേഗത്തിൽ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലോവർ കേസ് v d യുടെ മതിയായ ചെറിയ മൂല്യം കണ്ടെത്താനാകും നിങ്ങൾക്ക് സുഗമമായ തുടർച്ചയായ പ്രവർത്തനം ഉള്ളിടത്തോളം ഈ നിബന്ധനകൾ നിസ്സാരമായ ഇൻക്രിമെന്റ് ആയിരിക്കും അതിനാൽ ഈ ഏകദേശ കണക്ക് എല്ലായ്പ്പോഴും സാധുതയുള്ളതാണ് ഒരേയൊരു കാര്യം അത് സാധുതയുള്ള VDയുടെ പരിധി നിങ്ങൾ പരിമിതപ്പെടുത്തണം അത്രമാത്രം ഇപ്പോൾ ഞാൻ ഇവ അവഗണിച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് ഈ f ഒപ്പം ഈ ചെറിയ അക്ഷരം vd അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ vd എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യ ഓർഡർ ആശ്രിതത്വവും ബാക്കിയാകും പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ കേസിൽ നിന്ന് ഞാൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നു അതായത് ഞാൻ ഈ സമവാക്യവും ആ സമവാക്യവും എടുത്ത് കുറയ്ക്കുന്നു പ്രവർത്തന പോയിന്റിൽ കണക്കാക്കിയ എഫ് പ്രൈം തവണ VDക്ക് തുല്യമായിട്ടായിരിക്കും നമുക്ക് R ലഭിക്കുക ഇപ്പോൾ എന്താണ് ഇതിന്റെ പ്രാധാന്യം ഇത് ഇൻക്രിമെന്റ് VD യിൽ ലീനിയർ ആണ് ഇപ്പോൾ ഈ സ്ഥിരാങ്കം ഉണ്ട് അത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഈ സമവാക്യത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിരാങ്കം മാത്രമാണ് VDഎന്നത് വേരിയബിളാണ് ഈ സമവാക്യം VD യിൽ രേഖീയമാണ് അതിനാൽ അത് രേഖീയമല്ലാത്ത സമവാക്യങ്ങളേക്കാൾ പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് അതിനാൽ VS ന്റെ ഒരു മാറിയ മൂല്യത്തിന് നമ്മൾ രേഖീയമല്ലാത്ത സമവാക്യം വീണ്ടും പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ അത് ചെയ്യുന്നില്ല ഒരു രേഖീയ സമവാക്യം ഉപയോഗിച്ച് ഞങ്ങൾ ഏകദേശ പരിഹാരം കണ്ടെത്തുന്നു ഇപ്പോൾ അത് ഒരു വലിയ ലളിതവൽക്കരണം ആണ് ലീനിയർ സമവാക്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ധാരാളം നല്ല ടെക്നിക്കുകൾ ഉള്ളതിനാൽ വർദ്ധിച്ച അളവുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവയെല്ലാം ഉപയോഗിക്കാം അതിനാൽ ഇതാണ് വലിയ ലളിതവൽക്കരണം അതിനാൽ ചുരുക്കത്തിൽ ഞങ്ങൾ ആദ്യം കൃത്യമായ പരിഹാരം കണക്കാക്കുന്നു അത് ഓപ്പറേറ്റിംഗ് പോയിന്റിനുള്ള നോൺലീനിയർ സമവാക്യത്തിൽ നിന്നുള്ള പരിഹാരമാണ് ഞങ്ങൾ അത് സംഖ്യാപരമായോ ഗ്രാഫിക്കലായോ പിന്നീട് ചെയ്യും അത് എങ്ങനെ കൈകൊണ്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇൻപുട്ടിന്റെ മറ്റേതെങ്കിലും മൂല്യത്തിന് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഉണ്ടാകാം അത് പ്രശ്നമല്ല ഇൻപുട്ടുകളും ഇന്റേണൽ വേരിയബിളുകളും സർക്യൂട്ടിലെ എല്ലാ അളവുകളും യഥാർത്ഥ ഓപ്പറേറ്റിംഗ് പോയിന്റ് കേസുകൾ പ്ലസ് ഇൻക്രിമെന്റുകളായി നിങ്ങൾ പ്രകടിപ്പിക്കുന്നു നിങ്ങൾക്ക് രേഖീയതയില്ലാത്തിടത്തെല്ലാം ഓപ്പറേറ്റിംഗ് പോയിന്റിനെക്കുറിച്ച് ടെയ്ലർ സീരീസിൽ വിപുലീകരിക്കാനും ഉയർന്ന ഓർഡർ ടേമുകൾ അവഗണിക്കാനും കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ട ഒരു ലീനിയർ സമവാക്യം അവശേഷിക്കും അതിനാൽ ലീനിയർ സർക്യൂട്ട് വിശകലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം നോൺലീനിയർ സർക്യൂട്ടുകൾ ഏകദേശ രീതിയിൽ വിശകലനം ചെയ്യാൻ നിങ്ങൾ ബേസിക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലോ തത്തുല്യമായ ചില കോഴ്സുകളിലോ പഠിച്ചത് എല്ലാം ഇപ്പോൾ ഉപയോഗിക്കാം